ഈ സെഷനിൽ നമ്മൾ അസൈൻമെന്റ് നമ്പർ ആറ് പരിഹരിക്കാൻ പോകുന്നു അസൈൻമെന്റ് നമ്പർ അഞ്ച് പരിഹരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അസൈൻമെന്റുകൾ ടീച്ചിങ് അസിസ്റ്റന്റ്സ് ആണ് അവരാണ് ഇത് പരിഹരിക്കുന്നതും ഗ്രേഡിംഗ് ചെയ്യുന്നതും അതിനാൽ പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് എന്തുതരം ചിന്താഗതികളാണുള്ളതെന്ന് നിങ്ങൾക്ക് ഒരു രസം ലഭിക്കും ഇന്നത്തെ നിയമനം ശൈലേന്ദ്ര കുമാറും അൻമോൽ താക്കൂറും പരിഹരിക്കും ഇരുവരും ഐഐടി കാൺപൂരിലെ ഭൌതികശാസ്ത്ര വിഭാഗത്തിലെ പിഎച്ച്ഡി വിദ്യാർത്ഥികൾ അതിനാൽ ഇവിടെ ശൈലേന്ദ്ര കുമാർ അതിനാൽ ആദ്യ ചോദ്യം ലെൻസിന്റെ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നേരായ അളവിലുള്ള വിശകലനമാണ് എന്നാൽ ചോദ്യം പരിഹരിക്കുന്നതിന് മുമ്പ് പ്രകടനത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് യൂണിറ്റ് ആറിലെ നാൽപത്തിയൊമ്പത് പ്രഭാഷണത്തിൽ കാണാൻ കഴിയും അതിനാൽ അസൈൻമെന്റ് ആറിലെ ഒരു ചോദ്യം നമ്മൾ പരിഹരിക്കാൻ പോകുന്നു ഈ ചോദ്യത്തിൽ നാൽപത്തിയൊമ്പത് പ്രഭാഷണത്തിലെ പ്രകടനത്തിൽ നിങ്ങൾ കണ്ടതുപോലെ കോണ്ടക്ടറിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഒരു ട്യൂബ് ഉണ്ട് കാന്തം അകത്തേക്ക് വീഴുന്നു ഫ്ലക്സ് കാരണം ആ കാന്തം മാറുന്നു അതിനാൽ ആ ട്യൂബിൽ എഡ്ഡി കറന്റുകൾ സൃഷ്ടിക്കുന്നു അതിനാൽ ആ എഡ്ഡി വൈദ്യുത പ്രവാഹങ്ങൾ യഥാർത്ഥത്തിൽ കാന്തത്തിന്റെ ചലനത്തെ എതിർക്കുന്നു കാന്തികതയിലേക്ക് താഴേക്ക് പ്രവർത്തിക്കുന്ന ഗുരുത്വാകർഷണബലം മറ്റൊരു ശക്തിയുണ്ട് അതിനാൽ ഈ രണ്ട് ശക്തികളും പരസ്പരം ബന്ധിപ്പിക്കുന്നു ചിലപ്പോൾ കാന്തത്തിൽ ആക്സിലറേഷൻ പ്രവർത്തിക്കില്ല അതിനാൽ കാന്തം ഒരു വേഗത ശ്രമിക്കുന്നു ഇതിനെ ടെർമിനൽ വേഗത എന്ന് വിളിക്കുന്നു ആക്സിലറേഷൻ മൂലം കാന്തിക സമയത്തിന്റെ മാസ്സ് ടെർമിനൽ വേഗത നൽകുന്നത് ഈ ഡ്രേക്ക് ഗുണകം mu നോട്ട് ആൽഫയും നൽകുന്നു VT mgk kC 0Mb aa4 നിങ്ങൾക്ക് അസൈൻമെന്റ് വായിക്കാൻ കഴിയും അവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും കാന്തിക ഗാമയുടെ സിഗ്മ ബീറ്റ കാന്തിക മോമെന്റ്റ് എം ഗാമ തുടർന്ന് ട്യൂബിന്റെ കനം ട്യൂബ് പവർ നാല് ആന്തരിക ആരം കൊണ്ട് ഹരിക്കുന്നു പക്ഷേ നമുക്ക് ഒരു കേവല സ്ഥിരത സ്ഥാപിക്കാം അതിന് ഒരു ഡിമെൻഷൻ ഇല്ല സി ക്ക് ഒരു ഡിമെൻഷൻ ഇല്ല ഇപ്പോൾ നമുക്ക് ഈ ബന്ധത്തെ ഒന്ന് ഈ ബന്ധം രണ്ട് എന്ന് വിളിക്കാം ഫോർമുല ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് k ന്റെ അളവ് കണ്ടെത്താൻ കഴിയും അതിനാൽ k m g ബൈ v T ആയി മാറുന്നു ഇത് മാസ്സ് ഒന്ന് g ന് L T മൈനസ് രണ്ട് അളവുണ്ട് v എന്നത് യഥാർത്ഥത്തിൽ വേഗതയുടെ അളവാണ് അതിനാൽ ഇത് എൽ ടി മൈനസ് ഒന്ന് ആണ് k mgvT MLT 2LT 1 k M1L0T 1 അതിനാൽ നമുക്ക് ഫലപ്രദമായ അളവുകൾ k ന്റെ അളവ് M ഒന്ന് L 0 T മൈനസ് ഒന്ന് എന്നിവയാണ് രണ്ടാമത്തെ ബന്ധത്തിൽ നിന്ന് k എന്നത് C mu ആൽഫയ്ക്ക് തുല്യമാണ് ഈ ബന്ധം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഓരോ അളവിന്റെയും അളവുകൾ എഴുതാൻ പോകുന്നു 0 MLT 2I 2 σ I2ML3T 3 M L2I1 b a L a L അതിനാൽ mu നോട്ടിന്റെ അളവ് M L T മൈനസ് രണ്ട് I മൈനസ് രണ്ട് ആണ് സിഗ്മയുടെ അളവ് സിഗ്മ ഇവിടെ ഉപയോഗിക്കുന്നു ഇത് ഞാൻ രണ്ട് M L മൂന്ന് T മൈനസ് മൂന്ന് ആണ് കൂടാതെ കാന്തിക മോമെന്റ്റ് ന്റെ അളവ് L രണ്ട് I ഒന്ന് പിന്നെ ബി മൈനസ് എ യുടെ അളവ് നമുക്ക് മുന്നോട്ട് പോകാം ഇത് L ആണ് ഒരു a L ഉം ആണ് ഇപ്പോൾ നമുക്ക് k ഇതുപോലെ എഴുതാം K യുടെ അളവ് ഇതുപോലെ Mu M L T മൈനസ് രണ്ട് I മൈനസ് രണ്ട് ആൽഫ പിന്നെ സിഗ്മയ്ക്ക് ഇത് M L മൂന്ന് ടി മൈനസ് മൂന്ന് ബീറ്റ കൊണ്ട് ഹരിക്കുന്നു ഇത് വീണ്ടും ബീറ്റയാണ് ഇവിടെയും ബീറ്റ M നെ സംബന്ധിച്ചിടത്തോളം ഇത് L 2 I 1 ഗാമയാണ് അതിനാൽ ബി മൈനസ് എ യ്ക്കായി നമ്മൾ എൽ ഡെൽറ്റയെ L a L 4 എന്നിങ്ങനെ വിഭജിക്കും k MLT 2I 2I2L2I1ML3T 3LL4 ഇപ്പോൾ നമുക്ക് ഇത് വ്യക്തമായി എഴുതാം K ന്റെ അളവ് ആയിരിക്കും ഇത് യഥാർത്ഥത്തിൽ M T മൈനസ് 1 ആണ് നമ്മൾ ഇത് ആദ്യ ബന്ധത്തിൽ നിന്ന് കണക്കാക്കി MT 1Mα β Lα 3β2γδ 4 T 2α3βI 2α2βγ രണ്ടാമത്തെ ബന്ധത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അളവുകൾ ഇതുപോലെയാണ് എം ആൽഫ മൈനസ് ബീറ്റ പിന്നെ എൽ ആൽഫ മൈനസ് 3 ബീറ്റ പ്ലസ് 2 ഗാമ പ്ലസ് ഡെൽറ്റ മൈനസ് 4 ടി യ്ക്ക് നമ്മൾക്ക് മൈനസ് 2 ആൽഫ പ്ലസ് 3 ബീറ്റ ലഭിക്കുന്നു എനിക്ക് നമ്മൾക്ക് മൈനസ് 2 ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് ഗാമ ലഭിക്കുന്നു ഇപ്പോൾ നമുക്ക് അളവുകൾ താരതമ്യം ചെയ്യാം M ന്റെ അളവുകൾക്കായി നമ്മൾക്ക് ആൽഫ മൈനസ് ബീറ്റ 1 ന് തുല്യമാണ് അതിനെ റിലേഷൻ 3 എന്ന് വിളിക്കുക α β 1 ദൈർഘ്യത്തിന് എൽ ഇല്ലെന്ന് ഇവിടെ കാണാം അതിനാൽ ആൽഫ മൈനസ് 3 ബീറ്റ പ്ലസ് 2 ഗാമ പ്ലസ് ഡെൽറ്റ മൈനസ് 4 0 ന് തുല്യമാണ് α 3β2γδ 40 ടി യുടെ അളവുകൾ മൈനസ് 2 ആൽഫ പ്ലസ് 3 ബീറ്റ മൈനസ് 1 ന് തുല്യമാണ് 2α3β 1 I യെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൈനസ് 2 ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് ഗാമ 0 ന് തുല്യമാണ് 2α2βγ0 ഈ സമവാക്യങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ മൂന്ന് സമവാക്യങ്ങളിൽ നിന്ന് ബീറ്റ ആൽഫ മൈനസ് ഒന്നിന് തുല്യമാണെന്ന് നമ്മൾ കാണുന്നു നിങ്ങൾക്ക് ഈ സമവാക്യം ഈ സമവാക്യത്തിൽ ഉൾപ്പെടുത്താം സമവാക്യം അഞ്ച് അതിനാൽ നമ്മൾക്ക് ഇവിടെ നാല് സമവാക്യങ്ങൾ ലഭിച്ചു ഇപ്പോൾ ഈ സമവാക്യങ്ങൾക്ക് നാല് അജ്ഞാതങ്ങൾ ലഭിച്ചു നാല് സമവാക്യങ്ങൾ അതിനാൽ നമുക്ക് ഈ സമവാക്യങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും അതിനാൽ ഞാൻ ഇവിടെ പരിഹാരം എഴുതുകയാണ് അതിനാൽ ആൽഫയ്ക്ക് നമുക്ക് 2 ലഭിക്കും ബീറ്റ നമ്മൾക്ക് 1 ലഭിക്കും ഗാമാ നമുക്ക് 2 ഉം ഡെൽറ്റയും ലഭിക്കും നമുക്ക് ഒന്ന് ലഭിക്കും ലൈക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ ഉത്തരങ്ങൾ പരിശോധിക്കാൻ കഴിയും നമ്മളുടെ മൂന്നാമത്തെ സമവാക്യം ആൽഫ മൈനസ് ബീറ്റ 1 ന് തുല്യമാണ് നിങ്ങൾ ആൽഫ 2 തുല്യമാണെങ്കിൽ ബീറ്റ ഒന്നിന് തുല്യമാണ് ഇത് തൃപ്തികരമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റൊരു സമവാക്യം നമുക്ക് ഗാമയും പരിശോധിക്കാം അതിനാൽ നമ്മൾക്ക് സമവാക്യം ഉണ്ട് മൈനസ് 2 ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് ഗാമ 0 ന് തുല്യമാണ് α2 β1 γ2 δ1α β 1 2α2βγ0 42γ0 γ2 നിങ്ങൾ ആൽഫ ഇവിടെ രണ്ടെണ്ണത്തിന് തുല്യമാണെങ്കിൽ അത് മൈനസ് നാല് ആകും നിങ്ങൾ ബീറ്റ ഒന്നിന് തുല്യമാണെങ്കിൽ നമ്മൾക്ക് രണ്ടെണ്ണം ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് ഗാമാ രണ്ടിന് തുല്യമാണ് അതുപോലെ ഡെൽറ്റയ്ക്കായി നിങ്ങൾക്ക് ഇത് പരിശോധിക്കാൻ കഴിയും രണ്ടാമത്തെ പ്രശ്നത്തിൽ ഫീൽഡിന്റെ യാഥാസ്ഥിതികമല്ലാത്തത് കാണിക്കുന്നു അതിനാൽ ഇതാണ് ഡയഗ്രം ഇവിടെ ഒരു സോളിനോയിഡ് ഈ സോളിനോയിഡ് കാരണം ഒരു വൈദ്യുത മണ്ഡലം ഒരു e m f യഥാർത്ഥത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു അത് e m f അതിനാൽ നിങ്ങൾ ഏത് സ്ഥലത്തുനിന്നും ആരംഭിക്കുന്നു ഈ ഘട്ടത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഈ പോയിന്റിൽ നിന്ന് ആരംഭിച്ച് നിങ്ങൾ ലൂപ്പിന് ചുറ്റും നീങ്ങുന്നു നിങ്ങൾ ഈ പാതയിലേക്ക് വരും നിങ്ങൾ ഒരു 20 വോൾട്ട് നേടിയതായി കാണും കുറച്ച് വോൾട്ട് നിങ്ങൾ ലൂപ്പ് പൂർത്തിയാക്കുമ്പോൾ പക്ഷേ അത് യാഥാസ്ഥിതികമാണെങ്കിൽ നേട്ടം 0 ആയിരിക്കണം പക്ഷേ ഇവിടെ കുറച്ച് നേട്ടമുണ്ട് ഇത് 20 വോൾട്ടേജാണ് അതിനാൽ ഇത് യാഥാസ്ഥിതികമല്ല ഇത് പ്രഭാഷണങ്ങളിലും കാണിച്ചിരിക്കുന്നു അതിനാൽ ഈ റെസിസ്റ്ററായ ഈ റെസിസ്റ്ററിലുടനീളമുള്ള സാധ്യത കുറയുന്നുവെങ്കിൽ വായന പരിഹരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പിന്നെ നമ്മൾ ആണെങ്കിൽ എന്താണ് വോൾട്ടേജ് റീഡിംഗ് ഈ മൂന്ന് റെസിസ്റ്ററുകളിലുടനീളമുള്ള സാധ്യത നമ്മൾ അളക്കുന്നു അതിനാൽ നമ്മൾ ഇതിനായി കിർചോഫിന്റെ നിയമം ഉപയോഗിക്കും അതിനാൽ നമുക്ക് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കാം അതിനാൽ ഈ ലൂപ്പിൽ ഈ ദിശയിൽ കറന്റ് ഒഴുകുന്നുവെന്ന് കരുതുക അതിൽ ഒരു ഭാഗം ഇവിടെ പോകും ഇത് ഞാൻ ഞാൻ ഒന്ന് ഇത് ഞാൻ രണ്ട് എന്ന് പറയാം അതിനാൽ നമുക്ക് രണ്ട് ലൂപ്പുകൾ പരിഗണിക്കാം ഇതിൽ ഒരു ലൂപ്പും മറ്റൊരു ലൂപ്പും ഇവിടെ ഇപ്പോൾ ഈ ലൂപ്പിനായി നമ്മൾക്ക് കിർചോഫിന്റെ Kirchhoff's സമവാക്യം എഴുതാം സമവാക്യം ആയിരിക്കും അതിനുമുമ്പ് വോൾട്ട മീറ്ററിന്റെ ഈ പ്രതിരോധം ആർ ആണെന്ന് നമുക്ക് അനുമാനിക്കാം പിന്നെ കിർചോഫിന്റെ സമവാക്യം ഇതുപോലെ എഴുതാം ഈ റെസിസ്റ്ററിലുടനീളമുള്ള ഡ്രോപ്പ് മൂന്ന് I ഉം ഈ റെസിസ്റ്റൻസിനു കുറുകെയുള്ള ഡ്രോപ്പ് R I 2 ഉം ആയിരിക്കും അതിനാൽ ഈ ലൂപ്പിൽ ഇത് 0 ആയിരിക്കണം 3IRI20 അതിനാൽ ഇത് 0 ആണ് കാരണം ഈ ലൂപ്പ് ഈ സർക്യൂട്ടിന് പുറത്താണ് അതിനാൽ ഒരു ഫ്ലക്സും മാറുന്നില്ല അതിനാലാണ് നമ്മൾ ഇത് 0 ന് തുല്യമായി ഇടുന്നത് തുടർന്ന് നമുക്ക് ഈ ലൂപ്പിലേക്ക് പോകാം നമുക്ക് ഇതിനെ ലൂപ്പ് 2 എന്ന് വിളിക്കാം ഈ ലൂപ്പിനായി നമുക്ക് സമവാക്യം എഴുതാം സമവാക്യം ഞാൻ നാലിരട്ടി I പോലെയാകും തുടർന്ന് ഞാൻ I 1 കറന്റ് ഒരു ഓം പ്രതിരോധത്തിലൂടെ ഒഴുകുന്നു അതിനാൽ അത് I 1 രണ്ട് ഓമിലുടനീളം വോൾട്ടേജ് 2 I 1 ആയിരിക്കും തുടർന്ന് 3 ഓമിലുടനീളം വോൾട്ടേജ് 3 I ആയിരിക്കും ഇത് ആകെ 20 വോൾട്ട് ആണ് 4I1I12I13I20 V 7I13I20V ഇപ്പോൾ ഈ സമവാക്യം 4 I 5 I ആയി മാറുന്നു അതിനാൽ ആകെ ഏഴ് I 1 പ്ലസ് 3 ആയി മാറുന്നു 20 വോൾട്ടിന് തുല്യമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ യഥാർത്ഥത്തിൽ I ഒരു പ്ലസ് I 2 ആണെന്ന് കാണാം അതിനാൽ I I 1 പ്ലസ് I 2 ന് തുല്യമാണെന്ന് എഴുതാം II1I27I13I1I220V 10I13I220 V അതിനാൽ ഈ സമവാക്യം ഏഴ് I 1 പ്ലസ് 3 I 1 പ്ലസ് I 2 ആയി മാറുന്നു ഇത് 10 I 1 പ്ലസ് 3 I 2 20 വോൾട്ടിന് തുല്യമാണ് നമുക്ക് ഇതിനെ വീണ്ടും സമവാക്യം 1 എന്ന് വിളിക്കാം ലൂപ്പ് ഒന്നിലെ മുമ്പത്തെ സമവാക്യത്തിൽ നിന്ന് ഈ 3 I പ്ലസ് R I 2 0 ന് തുല്യമാണ് നമുക്ക് ഇത് 3 I 1 പ്ലസ് I 2 R I 2 എന്നിവ 0 ന് തുല്യമാണ് ഇത് 3 I 1 പ്ലസ് 3 പ്ലസ് R I 2 0 ന് തുല്യമാണ് 3I1I2RI203I13RI2010I13I220 V മുമ്പത്തെ സമവാക്യം വീണ്ടും ഇവിടെ എഴുതാം അതിനാൽ 10 I 1 പ്ലസ് 3 I 2 അതിനാൽ നമുക്ക് രണ്ട് വേരിയബിളുകളിൽ രണ്ട് ലീനിയർ സമവാക്യങ്ങൾ ലഭിച്ചു I 1 ഉം I ഉം 2 അതിനാൽ നമുക്ക് ഈ സമവാക്യങ്ങൾ പരിഹരിക്കാനും ഈ സമവാക്യം പരിഹരിക്കാനും നമുക്ക് അതിനെ 10 കൊണ്ട് ഗുണിക്കാം അതിനാൽ നമുക്ക് I 1 ഉം ഇത് 3 ഉം ഇല്ലാതാക്കാൻ കഴിയും 10×3I13RI203×10I13I220 V പരിഹരിക്കുമ്പോൾ നമുക്ക് I 2 തുല്യമാണ് ഞാൻ നേരിട്ടുള്ള ഉത്തരം ഇവിടെ എഴുതുന്നു അതിനാൽ ഇത് മൈനസ് 60 നെ 21 പ്ലസ് 10 ആർ കൊണ്ട് ഹരിക്കാം ഇപ്പോൾ പോട്ടെൻഷ്യൽ V ഒന്ന് ആർ I 2 ആണ് അതിനാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മൈനസ് അറുപത് ആർ 21 പ്ലസ് 10 ആർ കൊണ്ട് ഹരിക്കുന്നു I2 602110RV1RI2 60R2110R നമുക്ക് R കൊണ്ട് ഹരിക്കാം നമുക്ക് V 1 എന്നത് മൈനസ് 60 ന് തുല്യമാണ് 21 നെ R കൊണ്ട് പ്ലസ് 10 കൊണ്ട് ഹരിക്കുന്നു V1 6021R10 അതിനാൽ ഇപ്പോൾ വോൾട്ട മീറ്ററിനായി വോൾട്ട മീറ്റർ R വളരെ വലുതാണ് അതിനാൽ ആ പരിധിയിൽ നമുക്ക് V 1 ലഭിക്കുന്നത് മൈനസ് 60 ന് തുല്യമാണ് ഈ കാര്യം 0 ലേക്ക് പോകുന്നു ഇത് 0 ലേക്ക് പോകുന്നു അതിനാൽ നമുക്ക് 10 ഉം അവശേഷിക്കുന്നു അതിനാൽ നമുക്ക് മൈനസ് 6 വോൾട്ട് ലഭിക്കും At R→∞ V1 6010 6V ഇപ്പോൾ സർക്യൂട്ടിലെ v 2 ന് ഇപ്പോൾ v 2 യഥാർത്ഥത്തിൽ 20 വോൾട്ട് പ്ലസ് ആണ് ഈ V 1 ഇത് മൈനസ് 6 വോൾട്ട് ആണ് അതിനാൽ ഇത് 14 വോൾട്ട് ആയി മാറുന്നു V220 614 V അതിനാൽ നിങ്ങൾക്ക് കാണിച്ച പ്രകടനവുമായി ഈ പ്രശ്നം ഞാൻ വിവരിക്കട്ടെ അവിടെ നമ്മൾക്ക് ഒരു സർക്യൂട്ടും പ്രതിരോധവും ഉണ്ടായിരുന്നു സർക്യൂട്ടിനിടയിൽ ഫ്ലക്സ് മാറിക്കൊണ്ടിരുന്നു നമ്മൾ ഒരിക്കൽ ഒരു വോൾട്ട മീറ്ററും ഒരു വശത്തും മറ്റൊരു വശത്തും ബന്ധിപ്പിച്ചിരുന്നു നമ്മൾ വ്യത്യസ്ത വോൾട്ടേജുകൾ നേടി ഫീൽഡിന്റെ യാഥാസ്ഥിതികമല്ലാത്ത സ്വഭാവം നമ്മൾ കാണിച്ചു ഈ പ്രശ്നം എന്താണ് പരിഹരിക്കുന്നതെന്ന് അത് കൃത്യമായി കാണിക്കുന്നു നാല് വ്യത്യസ്ത പ്രതിരോധങ്ങളുള്ള സർക്യൂട്ടിൽ ഫ്ലക്സ് മാറ്റം സൃഷ്ടിക്കുന്ന ഒരു സോളിനോയിഡ് ഉണ്ടെങ്കിൽ ഒരു വശത്ത് വോൾട്ടേജ് 6 വോൾട്ടായും മറുവശത്ത് 14 വോൾട്ടുകളായും വരുന്നു ഇരുപത് മൈനസ് പതിനാല് ഉപയോഗിച്ച് നിങ്ങൾ ഇത് പരിഹരിക്കുന്നു എന്നാൽ രണ്ടാമത്തെ സർക്യൂട്ട് കണ്ടാൽ അത് കൃത്യമാണ് ഇത് ഇവിടെ ഒരു സർക്യൂട്ടും ഒരു പ്രതിരോധവുമാണെന്ന് എനിക്ക് അനുമാനിക്കാം ഈ മൂന്ന് പ്രതിരോധങ്ങളും ഒരുമിച്ച് ഒരു ചെറുത്തുനിൽപ്പാണ് നമ്മൾ ഇവിടെ വോൾട്ടേജ് കണക്കാക്കുന്നു അത് 14 വോൾട്ടുകളായി മാറുന്നു ഇത് വീണ്ടും ഫീൽഡിന് പുറത്താണ് വോൾട്ട്മീറ്ററിന്റെ പ്രതിരോധം എടുക്കുന്നതിനും R അനന്തതയിലേയ്ക്ക് നയിക്കുന്നതിന്റെ പരിധി ഏറ്റെടുക്കുന്നതിനും I 2 0 എന്നതിലേക്ക് നയിക്കുന്നതിനുംആറ് വോൾട്ടുകളായി സംയോജിക്കുന്നു ഒരാൾക്ക് ഇത് നേരിട്ട് നോക്കാം R നെ അനന്തമായി എടുക്കുകയാണെങ്കിൽ തുടക്കം മുതൽ നമ്മൾക്ക് 1 ഓം 2 ഓംസ് 3 ഓംസ് ഇവിടെ 4 ഓംസ് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ വോൾട്ട്മീറ്റർ എടുത്ത് R തുടക്കം മുതൽ തന്നെ അനന്തമായി എടുക്കുകയാണെങ്കിൽ ഈ ലൂപ്പിലെ കറന്റ് ഞാൻ 2 ആമ്പിയറുകൾക്ക് തുല്യമാണ് ഞാൻ ഈ പാതയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ വോൾട്ടേജ് ഇവിടെ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം കറന്റ് 6 വോൾട്ട് പ്ലസ് V r 0 ഉം ആയിരിക്കും കാരണം ഇവിടെ ഇ എഫ് നിർമ്മിക്കുന്നില്ല കൂടാതെ ഇത് നിങ്ങൾക്ക് V r മൈനസ് 6 വോൾട്ടിന് തുല്യമാണ് മറുവശത്ത് അതേ വിശകലനവുമായി ഞാൻ മറുവശത്ത് ലൂപ്പിന് ചുറ്റും പോയാൽ നിങ്ങൾക്ക് V r തുല്യമായ മൈനസ് 14 വോൾട്ട് ലഭിക്കും അതേ ഉത്തരം തന്നെയാണ് പക്ഷേ നേരത്തെ ലഭിച്ച പരിഹാരം നിങ്ങളെ ശരിയായ പരിധിയിൽ കാണിച്ചു കാരണം ഇത് പരിഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാകാം വോൾട്ട്മീറ്ററിലൂടെ ചോർച്ചയുള്ള വൈദ്യുത പ്രവാഹമുണ്ടാകാം ഒരു വിശകലനത്തിലൂടെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കാണിച്ചത് I വോൾട്ട്മീറ്ററിന്റെ പ്രതിരോധം R ആയി കണക്കാക്കുന്നു R അനന്തതയിലേക്ക് പോകുമ്പോൾ I 2 0 ലേക്ക് പോകുന്നു പക്ഷേ അവയുടെ ഉൽപ്പന്നം അതിന്റെ മൂല്യത്തിലേക്ക് സംയോജിക്കുന്നു അത് നമ്മൾ അളക്കുന്നു അതിനാൽ മൂന്നാമത്തെ പ്രശ്നത്തിൽ z അക്ഷത്തിൽ ചലിക്കുന്ന ഒരു ചാർജ് കണികയുണ്ട് സ്ഥിരമായ വേഗതയുള്ള പോസിറ്റീവ് z അക്ഷം V ഇത് ഉത്ഭവത്തിലൂടെ കടന്നുപോകുന്നു അതിനാൽ ഞാൻ ചെയ്യട്ടെ അതിനാൽ ഇതാണ് ചാർജ് കണിക അത് പോസിറ്റീവ് ദിശയിലേക്ക് നീങ്ങുന്നു അതിനാൽ നമുക്ക് ഇതാണ് ഉത്ഭവം അതിനാൽ നമുക്ക് ഏത് സമയത്തും കൂടാതെ സ്ഥാനചലന കറന്റ് സാന്ദ്രത ഉത്ഭവസ്ഥാനത്ത് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ചാർജ് എപ്പോൾ നീങ്ങുമ്പോൾ ഉത്ഭവിക്കുന്ന വൈദ്യുത മണ്ഡലം ഈ ചാർജ് കാരണം മാറും അതിനാൽ വൈദ്യുത മണ്ഡലത്തിലെ ആ മാറ്റം കാന്തികക്ഷേത്രത്തെ പ്രേരിപ്പിക്കും കൂടാതെ കാന്തികക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്ത ഘടകം സ്ഥാനചലന പ്രവാഹമാണ് അതിനാൽ സ്ഥാനചലനം കണ്ടുപിടിക്കാൻ ഏത് സമയത്തും കണിക r ൽ ആണെന്ന് കരുതുക അത് t യുടെ പ്രവർത്തനമാണ് കണിക അങ്ങനെ ചലിക്കുന്നതിനാൽ r t പിന്നെ ഉത്ഭവസ്ഥാനം ഈ ചാർജ് കാരണം E 1 നെ 4 pi എപ്സിലോൺ നോട്ട് q കൊണ്ട് ഹരിക്കുന്നു ഇത് ചാർജും അതിന്റെ വേഗത v ഉം ആണ് അതിനാൽ q സ്ക്വയറിനാൽ ഹരിക്കുന്നു വയലും ഇത് പോസിറ്റീവ് ചാർജാണ് qr2 z അതിനാൽ ഈ ചാർജ് നിർമ്മിക്കുന്ന ഫീൽഡ് നെഗറ്റീവ് ദിശയിലായിരിക്കും അതിനാൽ നമുക്ക് ഇവിടെ മൈനസ് ചിഹ്നം ഇടാം അതിനാൽ ഈ ചാർജ് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുത മണ്ഡലം ഇതാണ് ഈ ചാർജ് നീങ്ങുന്നിടത്ത് അതിനാൽ r അത് നിരന്തരമായ വേഗതയിൽ സഞ്ചരിക്കുന്നുവെന്ന് നമ്മൾക്ക് നൽകിയിരിക്കുന്നു അതായത് r ന്റെ മാറ്റത്തിന്റെ നിരക്ക് v ഇപ്പോൾ നമുക്ക് ഈ സമവാക്യം പരിഹരിക്കാൻ കഴിയും അതിനാൽ r t V തവണ t യും a സ്ഥിരമായ c ഉം ആയിരിക്കും പക്ഷേ നമ്മളോട് അത് പറഞ്ഞിട്ടുണ്ട് t സമയത്ത് 0 എന്നതിന് തുല്യമാണ് കണികയുടെ ഉത്ഭവം അതിനാൽ t ന് 0 ന് തുല്യമാണ് r 0 ആണ് അതിനാൽ എനിക്ക് സി നൽകുന്നത് 0 ന് തുല്യമാണ് drtdtvrtvtcAt to rt0c0So rtvt അതിനാൽ വൈദ്യുത മണ്ഡലം യഥാർത്ഥത്തിൽ t യുടെ E ഫംഗ്ഷൻ 1 നെ 4 pi എപ്സിലോൺ നോട്ട് കൊണ്ട് ഹരിക്കുന്നു തുടർന്ന് q നെ നെഗറ്റീവ് z ദിശയിൽ v സ്ക്വയർ ടി സ്ക്വയറാൽ വിഭജിക്കുന്നു ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി യഥാർത്ഥത്തിൽ നൽകുന്നത് E യുടെ എപ്സിലോൺ നോട്ട് d dt ആണ് അതിനാൽ അത് എനിക്ക് 1 ബൈ 4 പൈ എപ്സിലോൺ നോട്ട് q ബൈ q വി സ്ക്വയറിലൂടെ നൽകും v സ്ഥിരമാണ് അതിനാൽ 1 d ന്റെ ചതുരത്തിന്റെ d d t അതിനാൽ നമുക്ക് ലഭിക്കുന്നു നിങ്ങൾ അത് ഉരുത്തിരിഞ്ഞു കൂടാതെ പോസിറ്റീവ് z ദിശയിൽ 1 നെ 2 pi q കൊണ്ട് v സ്ക്വയർ ടി ക്യൂബ് കൊണ്ട് ഹരിക്കാം 14π0 qv2 ddt1t2zJD 12πqv2t3z ചാർജ് ഉത്ഭവസ്ഥാനത്തേക്ക് നീങ്ങുമ്പോൾ ഈ പ്രശ്നത്തിൽ ശ്രദ്ധിക്കുക ഫീൽഡ് താഴേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു സ്ഥാനചലന വൈദ്യുതധാരയുണ്ട് അത് പോസിറ്റീവ് z ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എങ്ങനെയോ ഒറ്റനോട്ടത്തിൽ അത് എതിർദിശയിലാണെന്ന് തോന്നുന്നു പക്ഷേ സമയത്തിനനുസരിച്ച് ഫീൽഡ് യഥാർത്ഥത്തിൽ കുറയുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറന്റുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫീൽഡിന്റെ മാറ്റത്തിന്റെ നിരക്ക് എന്ന നിലയിൽ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് പോസിറ്റീവ് z ദിശയിലായിരിക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നാലാമത്തെ പ്രശ്നം ചാർജ്ജ് ചെയ്ത ഒരു കണിക കാരണം നമുക്ക് കാന്തികക്ഷേത്രം കണക്കാക്കേണ്ടതുണ്ട് ഇത് പ്രശ്നം മൂന്നിൽ വിവരിച്ചിരിക്കുന്നു ഒപ്പം x y തലം ഉത്ഭവത്തിൽ നിന്ന് r അകലെയുള്ള ഈ കാന്തികക്ഷേത്രം കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഒരു വഴി ചാർജ് നീങ്ങുന്ന ബയോസാവാർട്ട് നിയമം ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ചിന്തിക്കുക അതിനാൽ ഇത് ഒരു കറന്റായി കണക്കാക്കാം പക്ഷേ ഈ പ്രശ്നം ചെയ്യുന്നതിനുള്ള മാർഗ്ഗമല്ല ഇത് കാരണം ചലിക്കുന്ന ചാർജിന് സ്ഥിരമായ വൈദ്യുത പ്രവാഹങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല അതേസമയം ബയോസാവാർട്ട് നിയമം സ്ഥിരമായ വൈദ്യുതധാരയ്ക്കായി ഉപയോഗിക്കുന്നു അതിനാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉത്ഭവത്തിൽ നിന്ന് r അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് മാറിയതിനാൽ കണക്കുകൂട്ടൽ നിലവിലെ സാന്ദ്രത സ്ഥാനചലനം നിലവിലെ സാന്ദ്രത എന്നിവയിലൂടെ കടന്നുപോകേണ്ടതുണ്ട് അതിനാൽ ആ കാന്തികത നമുക്കറിയാം കാന്തികക്ഷേത്രത്തിന്റെ കർൾ mu നോട്ട് എപ്സിലോൺ നോട്ട് E യുടെ ഇരട്ട ടി ആണ് j ചാലകവും ഉണ്ട് എന്നാൽ ഇവിടെ ചാലക പ്രവാഹങ്ങളൊന്നുമില്ല അതിനാൽ അതുകൊണ്ടാണ് അവഗണിക്കപ്പെടുന്നത് അതിനാൽ നമുക്ക് പ്രശ്നം നോക്കാം അതിനാൽ ചാർജ് മുകളിലേക്ക് നീങ്ങുന്നു ഇതാണ് x y തലം ഇവിടെ കാന്തികക്ഷേത്രം കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇതാണ് R അതിനാൽ ഈ ഘട്ടത്തിൽ കാന്തികക്ഷേത്രം കണ്ടെത്താൻ നമുക്ക് എന്തുചെയ്യാൻ കഴിയും ഈ പാതയിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലെ മാറ്റം നമുക്ക് കണക്കാക്കാം അതിനാൽ നമുക്ക് ഉപരിതലത്തിൽ ഇരുവശവും സംയോജിപ്പിക്കാം സ്റ്റോക്സ് സിദ്ധാന്തത്തിൽ നിന്ന് ഈ ഉപരിതലത്തെ ബന്ധിപ്പിക്കുന്ന പാതയിലൂടെ ബി സംയോജിപ്പിച്ചത് പോലെ ഈ കാര്യം എഴുതാം അതിനാൽ ഈ ഉപരിതലത്തിൽ d dt പോലെ നമുക്ക് ഇത് എഴുതാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക കാരണം ഞാൻ പാതയിൽ ഘടികാരദിശയിൽ പോകുന്നു അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഈ d a യുടെ ദിശ മുകളിലേക്കാണ് കൂടാതെ ഞാൻ ഇവിടെ ആകെ ഡെറിവേറ്റീവ് ഉപയോഗിക്കുന്നു കാരണം ഇത് ഇപ്പോൾ ടി യുടെ മാത്രം പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കണക്കാക്കണം ഇപ്പോൾ ഈ കാര്യം യഥാർത്ഥത്തിൽ ഈ ഉപരിതലവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫ്ലക്സ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും da⏟ E അതിനാൽ ആദ്യം നമുക്ക് ഈ ഫ്ലക്സ് കണക്കാക്കാം അതിനാൽ വൈദ്യുത മണ്ഡലം കാരണം ഫ്ലക്സ് E da ആണ് ഇപ്പോൾ ഇ ഇലക്ട്രിക് ഫീൽഡ് പോയിന്റാണ് ഇത് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഉപരിതലം അതിനാൽ ഇതാണ് ഉത്ഭവം കുറച്ച് പോയിന്റ് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു വൃത്താകൃതിയിലുള്ള സ്ട്രിപ്പ് എടുക്കാം അതിനാൽ ഏത് ഘട്ടത്തിലും വൈദ്യുത മണ്ഡലം ഇത് s ൽ ആയിരിക്കട്ടെ ഇതാണ് പോയിന്റ് ചാർജ് അതിനാൽ ഇത് ഉത്ഭവത്തിൽ നിന്നുള്ള ഈ പോയിന്റ് ചാർജിന്റെ ദൂരം v t ആണ് കാരണം ഇത് അവസാന പ്രശ്നത്തിൽ നമ്മൾ കണ്ടതുപോലെ സ്ഥിരമായ വേഗത v യുമായി നീങ്ങുന്നു അതിനാൽ ഈ ദൂരം സ്ക്വയർ റൂട്ട് s സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ടി സ്ക്വയറും ആയിരിക്കും ഇപ്പോൾ ഈ ഘട്ടത്തിലെ വൈദ്യുത മണ്ഡലം 1 ബൈ 4 പൈ എപ്സിലോൺ നോട്ട് q ഈ ദൂരത്തിന്റെ ചതുരത്താൽ വിഭജിക്കപ്പെടും അതിനാൽ ഇത് സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ടി സ്ക്വയർ ആണ് അത് ചില ദിശയിലാണ് നമുക്ക് ഈ ദിശയെ k എന്ന് വിളിക്കാം ഇപ്പോൾ ഫ്ലക്സ് കണക്കാക്കാൻ നമ്മൾക്ക് ഈ ഘടകം മാത്രം ആവശ്യമാണ് നിങ്ങൾക്ക് ഈ ഘടകത്തിൽ താൽപ്പര്യമില്ല റഫർ സമയം 2856 daE 14π0 q ks2v2t2 ഇപ്പോൾ ഈ ഘടകം കണക്കാക്കാൻ അതിനാൽ നമുക്ക് ഈ ആംഗിൾ തീറ്റ എന്ന് വിളിക്കാം ഇപ്പോൾ ഈ ആംഗിൾ ഈ ആംഗിൾ തുല്യമാണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ഈ ഘടകത്തെ നമുക്ക് ഇ ഘടകം എന്ന് വിളിക്കാം അതിനാൽ ഈ ഇ ഘടകം ഇ കോസ് തീറ്റ ആയിരിക്കും കോസ് തീറ്റ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുമ്പോൾ v t അതിനെ s സ്ക്വയർ പ്ലസ് വി സ്ക്വയർ t സ്ക്വയർ കൊണ്ട് വിഭജിച്ചിരിക്കുന്നു Ecomp Ecosθcosθ vts2v2t2Ecomp 14π0 qvts2v2t232z അതിനാൽ ഇ ഘടകം 1 ബൈ 4 പൈ എപ്സിലോൺ നോട്ട് q v t യെ s സ്ക്വയർ പ്ലസ് v സ്ക്വയർ ടി സ്ക്വയർ 3 ബൈ 2 കൊണ്ട് ഹരിക്കുന്നു കൂടാതെ ഈ ഘടകം z ദിശയ്ക്ക് എതിർ ദിശയിലാണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ നമുക്ക് ഇവിടെ z ഇടാം പക്ഷേ ഒരു മൈനസ് ചിഹ്നം da q2ϵ0vtR2v2t232 1 ഇപ്പോൾ E d a മൈനസ് 1 ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇന്റഗ്രേഷൻ ഓവർ q v t s സ്ക്വയർ v സ്ക്വയർ t സ്ക്വയർ 3 ബൈ 2 ഇത് d a നമുക്ക് ഈ ചെറിയ ഭാഗങ്ങളുമായി സംയോജിപ്പിക്കാൻ കഴിയും അത് നമുക്ക് രണ്ട് pi s ds പോലെ എഴുതാം അതിനാൽ ഇന്റഗ്രേഷൻ q നൽകുന്നു എന്തുകൊണ്ട് അങ്ങനെ ഇത് റദ്ദാക്കുന്നു ഇവിടെ 2 അതിനാൽ 2 എപ്സിലോൺ നോട്ട് തുടർന്ന് നമുക്ക് വി ടി എസ് ഡി എസ് s സ്ക്വയർ പ്ലസ് v സ്ക്വയർ t സ്ക്വയർ 3 ബൈ 2 വിഭജിച്ചിരിക്കുന്നു ഈ സംയോജനം നേരെയുള്ളതാണ് ഞാൻ ഇവിടെ ഫലം എഴുതുകയാണ് ഇത് മൈനസ് q ആണ് എപ്സിലോൺ നോട്ട് വി ടി കൊണ്ട് ഹരിക്കുന്നു കൂടാതെ ഈ സംയോജനം യഥാർത്ഥത്തിൽ ഈ 0 മുതൽ R വരെയാണ് ചെയ്യുന്നത് അതിനാൽ ഇവിടെ ഇത് R ആണ് അതിനാൽ 0 മുതൽ r വരെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നു 0 മുതൽ R 0 മുതൽ R വരെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നു അതിനാൽ നമുക്ക് ഇവിടെ R സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ടി സ്ക്വയർ 3 ബൈ 2 മൈനസ് 1 ലഭിക്കും അതിനാൽ നമ്മൾക്ക് ഇപ്പോൾ ഫ്ലക്സ് ലഭിച്ചു അതിനാൽ സമയവുമായി ബന്ധപ്പെട്ട് ഫ്ലക്സിലെ മാറ്റം നമുക്ക് കണക്കാക്കാം അതിനാൽ ഇ ഡോട്ട് ഡയുടെ d dt അത് q v എപ്സിലോൺ നോട്ട് R സ്ക്വയറിനെ R സ്ക്വയറും v സ്ക്വയർ ടി സ്ക്വയർ 3 ബൈ 2 വിഭജിക്കുന്നു ഇപ്പോൾ നമുക്ക് പാതയിലൂടെ ബി ഡോട്ട് ഡിഎൽ സംയോജിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക mu നോട്ട് എപ്സിലോൺ ഫ്ലക്സിലെ ഈ മാറ്റം അതായത് q v നമ്മൾ ഇതിനകം കണക്കാക്കിയിട്ടുണ്ട് അതിനാൽ R സ്ക്വയർ പ്ലസ് v സ്ക്വയർ ടി സ്ക്വയർ 3 ബൈ 2 dl 00 qv20R2R2v2t2322πRB 0qvR22R2v2t232B 1202π qvR2R2v2t232 അതിനാൽ ഇത് റദ്ദാക്കുകയും ചാർജ് കണികയായ ഈ പാതയിലെ സംയോജനം ബി എല്ലാ പോയിന്റുകളിലും തുല്യമായതിനാൽ അതിനാൽ നമുക്ക് ഇത് R 2 pi R B B ന്റെ വ്യാപ്തി mu നോട്ട് q v എന്നതിന് തുല്യമാണ് ഈ കാര്യം അതിനാൽ B mu നോട്ട് ആയി 2 pi q v R ബൈ R സ്ക്വയർ പ്ലസ് v സ്ക്വയർ ടി സ്ക്വയർ 3 ബൈ 2 കൊണ്ട് ഹരിക്കുന്നു ഇപ്പോൾ ദിശ ഈ phi ആണ് അതിനാൽ കാന്തികക്ഷേത്രം phi ദിശയിലേക്ക് മാറുന്നു ഇത് യഥാർത്ഥത്തിൽ 4 പൈ ആയിരിക്കണം അതിനാൽ ഞാൻ കാണട്ടെ ഈ 2 ഇവിടെ സൂക്ഷിക്കണം ഇത് അവിടെ മുന്നോട്ട് പോകും ഇപ്പോൾ അത് ആകും അന്തിമഫലം mu നോട്ട് ബൈ 4 pi കൊണ്ട് വരും അതിനാൽ ശരിയായ ഓപ്ഷൻ ഡി